നാം നോഡൽ അനാലിസിസ് എന്തെന്ന് പഠിച്ചു അതോടൊപ്പം പല സാഹചര്യങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കും എന്നും കണ്ടു നോഡൽ അനാലിസിസ് ന്റെ ചുരുക്കം ഇതാണ് അത് പല സാഹചര്യങ്ങളിൽ ഉള്ള ഇക്വേഷനുകൾ ആണ് നാം ഈ നോഡൽ അനാലിസിസ് ചെയ്തിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലൂടെയും വീണ്ടും കടന്നു പോകുന്നതാണ് അതിനാൽ ആദ്യം ഞാൻ സർക്യൂട് കാണിക്കാം അത് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നു അതോടൊപ്പം നോഡൽ അനാലിസിസ് ന്റെ മാട്രിക്സ് രൂപത്തിലുള്ള ഇക്വേഷനും ഇവിടെ കാണിച്ചിരിക്കുന്നു ഞാൻ ഡെറിവേഷനിലേക്കു ഇപ്പോൾ പോകുന്നില്ല എന്തെന്നാൽ അത് നാം ചെയ്തതാണ് നിങ്ങൾക്കുള്ള നിർദേശം ഇതാണ് ഓരോ സർക്യൂട്ടിലും നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക സർക്യൂട് നോക്കുക നോഡൽ ഇക്വേഷൻ എഴുതുക അതിനു ശേഷം ഞാൻ ഇവിടെ തന്നതുമായി താരതമ്യം ചെയ്യുക ഈ പ്രവർത്തി നിങ്ങൾക്കു നോഡൽ അനാലിസിസ് പല സാഹചര്യങ്ങളിൽ ചെയ്യുവാനുള്ള പ്രാക്ടീസ് നൽകുന്നതാണ് ആദ്യം നാം നോക്കിയത് നോഡൽ അനാലിസിസ് ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതമായ കേസ് ആണ് അതിൽ റെസിസ്റ്ററുകളും ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് കളും ആണ് ഉള്ളത് നാം ഇതിനു മുമ്പ് പഠിച്ച സർക്യൂട് ആണ് ഇവിടെ ഉള്ളത് നാം ഇവിടെ G മാട്രിക്സ് x ഒരു അൺ നോൺ വെക്റ്റർ സോഴ്സ് വെക്റ്റർ എന്ന രീതി ഉപയോഗിച്ചാണ് ഇക്വേഷനുകൾ എഴുതിയത് ഇവിടെ G മാട്രിക്സ് എന്നത് സിമെട്രിക് ആണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനായി ഈ നമുക്ക് G മാട്രിക്സ് ന്റെ വിപരീതം എടുത്താൽ മതി നിങ്ങൾക്കു എല്ലാ നോഡൽ വോൾടേജ് കളും ലഭിക്കുന്നതാണ് അതിന്റെ ഒപ്പം മറ്റു വേണ്ട അളവുകളും ഇനി നമുക്ക് ഇൻഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ഇതിൽ ചേർക്കാം അത് മൂലം ഉണ്ടാകുന്ന സങ്കീർണത എന്താണെന്നു നിങ്ങൾക്കറിയാം എന്തെന്നാൽ ഈ വോൾടേജ് സോഴ്സ് ലൂടെ ഉള്ള കറന്റ് എത്രയാണെന്ന് കൃത്യമായി കണ്ടുപിടിക്കാനാകില്ല അതായതു ഇവിടെ വോൾടേജ് സോഴ്സ് ലെ കറന്റിനെ വോൾടേജ് സോഴ്സ് ന്റെ വോൾടേജുമായി ബന്ധപ്പെടുത്താനാകില്ല അത് സർക്യൂട്ടിലെ മറ്റു ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നാം അത് ഒരു സൂപ്പർ നോഡ് നിർമിച്ചു ആ പ്രശ്നം പരിഹരിച്ചു രണ്ടു നോഡുകൾക്കിടയിൽ ഒരു വോൾടേജ് സോഴ്സ് വന്നാൽ നാം അതിനെ ഒരു സൂപ്പർ നോഡ് ആക്കി മാറ്റി അതിനു ശേഷം ആ ഒരു സൂപ്പർ നോഡിനു ആണ് നാം ഇക്വേഷനുകൾ എഴുതിയത് നാം ഒരു സൂപ്പർ നോഡ് നിർമിച്ചപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ഇവിടെ നഷ്ടമായി എന്നാൽ ഇവിടെ നമുക്ക് വോൾടേജ് സോഴ്സ് നിയന്ത്രണങ്ങൾ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് മൂന്നു ഇക്വേഷനുകൾ ഇപ്പോഴും ഉണ്ട് അതോടൊപ്പം മൂന്നു വേരിയബിൾ ഇനി നമുക്ക് നോഡൽ വോൾടേജ് സോൾവ് ചെയ്യാം ആദ്യം നോക്കേണ്ടത് സൂപ്പർ നോഡ് ആണ് രണ്ടാമത് വോൾടേജ് സോഴ്സ് ഈ കേസിൽ നമുക്ക് സൂപ്പർ നോഡ് ഇക്വേഷനുകൾ നിർമിക്കുക വോൾടേജ് സോഴ്സ് ഇക്വേഷൻ നമുക്കുണ്ട് അവസാനം G മാട്രിക്സ് പിന്നെ ഇതാണ് അൺ നോൺ വെക്റ്റർ V പിന്നെ ഇത് സോഴ്സ് വെക്റ്റർ I ഇപ്പോൾ ഈ സോഴ്സ് വെക്റ്ററിൽ വോൾടേജ് സോഴ്സ് ഉണ്ട് അതോടൊപ്പം കറന്റ് സോഴ്സ് അപ്പോൾ ഈ എന്നത് സിമെട്രിക് അല്ല ഇനി നാം നോക്കുന്ന കേസ് എന്നത് വോൾടേജ് കൺട്രോൾഡ് വോൾടേജ് സോഴ്സ് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ കേസിൽ KCL എഴുതാനായി ബുദ്ധിമുട്ടുണ്ട് ആകെ നോക്കേണ്ട കാര്യം ഈ G മാട്രിക്സ് എന്നത് സിമെട്രിക് അല്ല എന്തെന്നാൽ ഈ വോൾടേജ് സോഴ്സ് ലൂടെ ഉള്ള കറന്റ് എന്നത് സർക്യൂട്ടിന്റെ മറ്റു ഭാഗങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഈ ഉദാഹരണത്തിൽ മാട്രിക്സ് എന്നത് സിമെട്രിക് അല്ല ഇനി നാം ചെയ്യുക നോഡൽ അനാലിസിസ് ചെയ്യാൻ പോകുന്ന ഒരു സർക്യൂട്ടിൽ ഒരു വോൾടേജ് കൺട്രോൾഡ് വോൾടേജ് സോഴ്സ് ഉൾപെടുത്തുക എന്നതാണ് ഇതിൽ ഇൻഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ഉള്ള കേസിൽ നാം ഉപയോഗിച്ചത് പോലെ ഒരു സൂപ്പർ നോഡ് നിർമിക്കുക എന്നതാണ് പിന്നീട് വോൾടേജ് സോഴ്സ് ന്റെ ഇക്വേഷൻ എഴുതുക ഇവിടെ അത് കൺട്രോൾഡ് സോഴ്സ് ആണ് ഇവിടെ വലതു വശം 0 ആണ് പിന്നെ ഇടതു വശത്തുള്ള G മാട്രിക്സ് എന്നത് സിമെട്രിക് അല്ല ഇനി നാം ഒരു കറന്റ് കൺട്രോൾഡ് വോൾടേജ് സോഴ്സ് ഇവിടെ ചേർക്കുന്നു ഇവിടെയും വോൾടേജ് സോഴ്സ് ൽ ചെയ്തത് പോലെ സൂപ്പർ നോഡ് നിർമിക്കുക അതോടൊപ്പം ഇക്വേഷനുകൾ എഴുതുക ഇനി കറന്റ് കൺട്രോൾഡ് വോൾടേജ് സോഴ്സ് ഇക്വേഷൻ എഴുതുക എന്നതാണ് പതിവ് പോലെ ഇവിടെയും ഈ G മാട്രിക്സ് എന്നത് സിമെട്രിക് അല്ല പിന്നെ ഇതൊരു കൺട്രോൾഡ് സോഴ്സ് ആയതിനാൽ വലതു വശം 0 ആയിരിക്കും അവസാനം നമ്മൾ കൺട്രോൾഡ് സോഴ്സ് ന്റെ അവസാന ഭാഗത്തിൽ എത്തി അതാണ് കറന്റ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് ഈ കേസിൽ എല്ലാ നോഡുകളിലും KCL അപ്ലൈ ചെയ്യാം ഇവിടെ നിയന്ത്രിക്കുന്ന കറന്റ് എന്നത് ഒരു റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറന്റ് ആയിരിക്കും അപ്പോൾ ഈ നിയന്ത്രിക്കുന്ന കറന്റ് എന്നത് ആ റെസിസ്റ്ററിന്റെ വോൾട്ടേജിന്റെ രൂപത്തിൽ എഴുതേണ്ടതാണ് ഇവിടെയും നമുക്ക് ഒരു G മാട്രിക്സ് ഉണ്ട് എന്നാൽ അത് സിമെട്രിക് അല്ല അതായതു ഈ രണ്ടു കേസിലും കറന്റ് കൺട്രോൾഡ് വോൾടേജ് സോഴ്സ് ആയാലും കറന്റ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് ആയാലും നാം അനുമാനിക്കുക നിയന്ത്രിക്കുന്ന കറന്റ് എന്നത് ഒഴുകുക ഒരു റെസിസ്റ്ററിലൂടെ ആയിരിക്കും എന്നതാണ് അപ്പോൾ ഈ നിയന്ത്രിക്കുന്ന കറന്റ് എന്നത് റെസിസ്റ്ററിന്റെ വോൾട്ടേജിന്റെ രൂപത്തിൽ എഴുതാനാകും എന്നതാണ് എന്നാൽ നിയന്ത്രിക്കുന്ന കറന്റ് എന്നത് ഒഴുകുക ഒരു വോൾടേജ് സോഴ്സ് നു കുറുകെ ആണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും